ടാൻജൻഷ്യൽ അതിർത്തി വ്യവസ്ഥകൾ അതിനാൽ ഇപ്പോൾ നമുക്ക് H ടാൻജൻഷ്യൽ നോക്കാം ഇവിടെയാണ് നിങ്ങളുടെ ഹൈസ്കൂളിൽ ചെയ്ത ഡെറിവേഷനിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുന്നത് കാരണം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഉപയോഗിച്ച് ഞാൻ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പുനർനിർവചിച്ചിട്ടുണ്ട് നമ്മൾ ഇത് എങ്ങനെ ചെയ്തു എങ്ങനെ ചെയ്യും നമുക്ക് ഈ സമവാക്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക ഇതായിരുന്നു അതിലെ എന്നത് ആയി മാറ്റിസ്ഥാപിക്കപ്പെട്ടു എന്നത് ആയി മാറ്റിസ്ഥാപിക്കപ്പെട്ടു ഒരു സമതല തരംഗത്തിന് അത് ശരിയാണ് അതിനാൽ നിങ്ങൾ ഇവിടെ തിരിഞ്ഞുനോക്കിയാൽ നമ്മൾ ഇത് നേരത്തേ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് പരിചിതമാണ് അതിനാൽ എന്നത് ഇവിടെയുള്ള പതനത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ ഇവിടെ ഒരു ഉണ്ടാകും അത് ശരിയാണോ അതെ ഈ രണ്ട് സമവാക്യങ്ങളുടെയും അടയാളങ്ങൾ നിങ്ങൾ പരിശോധിക്കണം അവ ഒരു മൈനസ് ചിഹ്നത്താൽ വ്യത്യസ്തമായിരിക്കാം പക്ഷേ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുപോകും കാരണം നമ്മൾ എന്തായാലും അത് പരിശോധിക്കും അതിനാൽ ഈ സമവാക്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഇവിടെ എന്റെ വൈദ്യുത മണ്ഡലം ലഭിക്കും ഞാൻ എന്റെ വൈദ്യുത മണ്ഡലം നിർവ്വചിച്ചു ഇവിടെ നിന്ന് എനിക്ക് കാന്തികക്ഷേത്രം നേടാം അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് കാന്തികമണ്ഡലം ലഭിക്കുമ്പോൾ എനിക്ക് പ്രദേശം 1 ൽ ലഭിക്കുന്നു അതിനാൽ പ്രദേശം 1 ആണ് മുകൾ ഭാഗം അവിടെയാണ് എനിക്ക് പതനവും പ്രതിഫലനവും ഉള്ള ഭാഗം അതിനാൽ എനിക്ക് വൈദ്യുത മണ്ഡലം തന്നാൽ കാന്തിക മണ്ഡലം ഞാൻ നിങ്ങൾക്ക് തരാം അത്തരം സമീപനമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാൽ ഇത് എന്നതിനു തുല്യമായിരിക്കും ഇത് എങ്ങനെ വന്നുവെന്ന് നിങ്ങൾ മറന്നെങ്കിൽ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് നേടാനാകും അതിനാൽ വളരെ ശരിയാണ് ഇത് നമ്മുടെ പതിച്ചതും പ്രതിഫലിച്ചതും ആയ ഫീൽഡുമാണ് കാന്തിക ഭാഗത്തിലെ പ്രദേശം 2 നും എനിക്ക് കൈമാറിയ ഫീൽഡ് മാത്രമാണ് ഉള്ളത് അതിനാൽ ഇത് എഴുതാൻ വളരെ എളുപ്പമായിരിക്കണം

ഇപ്പോൾ എനി എല്ലാം ശരിയാണെന്ന് പറയാൻ കഴിയും അതിനാൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ലഭിക്കുന്ന ഈ H ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ എനിക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ പൊതുവായി k ക്ക് 3 ഘടകങ്ങളും എന്റെ E ക്ക് x y ഘടകങ്ങളും ഉണ്ട് അതിനാൽ എനിക്ക് ഈ ക്രോസ് പ്രോഡക്റ്റ് വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റ് എന്നിവ എടുക്കാം അതിൽ നിന്ന് ഏത് പദമാണ് എനിക്ക് കൈവശം വെക്കാൻ പറ്റുന്നത് കാരണം എനിക്ക് നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ട് അതിനാൽ ഞാൻ ഏത് ഭാഗം ഉപേക്ഷിക്കണം അതിനാൽ ഈ ക്രോസ് പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എടുക്കുമ്പോൾ എനിക്ക് വളരെ ലളിതമായ ഒരു ഭാവം ലഭിക്കും

അതിനാൽ എന്റെ 2 സമവാക്യങ്ങൾ 2 വേരിയബിളുകളിൽ എനിക്ക് ലഭിച്ചു ഇവിടെ ഇതാണ് എന്റെ ആദ്യ സമവാക്യം അതിനാൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ബീജഗണിതം ഇവിടെ വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതെല്ലാം ചേർത്തു വയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഇവ എന്തൊക്കെയാണ് ഇത് എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടി പറയേണ്ടതുണ്ട് അതിനാൽ എന്താണ് ഇത് എന്താണ് ഇത് ലളിതമാണ് മാത്രമല്ല അല്ല കൃത്യവും ആണ് ഞാൻ നെ പതന തരംഗ വെക്റ്ററിന്റെ z ഘടകം ആയി നിർവഹിക്കുകയാണ് എന്നാൽ കൈമാറ്റം ചെയ്യപ്പെട്ട തരംഗ വെക്റ്റർ ആണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് ഞാൻ നിർവ്വചിക്കുന്നു അതിനാൽ പ്രതിഫലിച്ച തരംഗം സംഭവ തരംഗമായി വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് എന്നോട് പറയുന്ന ഭാഗമാണ് അതിനാൽ നമുക്ക് വേണ്ട 3 നിർവചനങ്ങൾ ഇവയാണ് അതിനാൽ ഈ സൂത്രവാക്യം എനിക്ക് ലഭിക്കേണ്ടത് തരുന്നു അതുപോലെ തന്നെ TM ധ്രുവീകരണത്തിലും അത് ബാക്കിയാണ് അതിനാൽ TM ധ്രുവീകരണത്തിൽ നിങ്ങൾ വൈദ്യുത മണ്ഡലത്തിനായുള്ള വ്യത്യസ്ത രീതികൾ എടുക്കും ഞാൻ വീണ്ടും അവസാനത്തെ പദപ്രയോഗം എഴുതാം അപ്പോൾ ഈ പദപ്രയോഗങ്ങൾ തമ്മിലുള്ള ഒരു സമാനത നിങ്ങൾക്ക് കാണാനാകും

എനിക്ക് ട്രാൻസ്മിഷൻ ഘടകം എഴുതാൻ കഴിയും പക്ഷേ അത് ഇവിടെ പ്രയോജനകരമല്ല കാരണം R കഴിയുന്നത്ര ചെറുതാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തതിൽ നിങ്ങൾ തൃപ്തരാണോ ശരിയാണ് അത് നിങ്ങൾക്കറിയാവുന്ന മാധ്യമത്തെ ആശ്രയിച്ചിരിക്കുന്നു വിദ്യാർത്ഥി അതിനാൽ വെക്ടറിൻറെ കൂടെ നമ്മൾ ചെയ്തത് അതേ പോലെയാണ് Z ദിശയിലുള്ള തരംഗ വെക്റ്ററും സംപ്രേഷണവും ഒന്നാകണം എന്നില്ല ഇത് മാധ്യമത്തിലെ പ്രചരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് ഇവിടെ വ്യത്യസ്ത എപ്സിലോൺ മ്യു വും ഇവിടെ വ്യത്യസ്ത എപ്സിലോൺ മ്യു വും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് z ഘടകങ്ങൾ സമാനമായിരിക്കും അവ ആകണമെന്നില്ല അല്ലേ ഇത് മാധ്യമത്തിൻറെ സവിശേഷതകളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ മറന്നെങ്കിൽ ഇവിടെയുള്ളത് പ്രകീർണനത്തിൻറെ ബന്ധത്തിൽ നിന്നും തുടരുന്ന ഒരു ബന്ധമാണ് k കൾ പിന്തുടരുന്നത് ഇവയാണ് അങ്ങനെയാണ് നമ്മൾ പുതിയ മാക്സ്വെല്ലിന്റെ സമവാക്യം ചെയ്യുന്നത് അതിനാൽ എനിക്ക് ഉണ്ട് അതിന് ഉം ഉം ഉണ്ട് അതിനാൽ ഞാൻ എനിക്ക് അറിഞ്ഞതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് അധിക ഭാഗം അല്ലെങ്കിൽ ഇവിടെ വ്യത്യസ്തമെന്ന് ശ്രദ്ധിക്കുക പുതിയ ഭാഗം e യുടെ ഉൾപ്പെടുത്തൽ ആണ് ഞാൻ e യുടെ മൂല്യം 1 ന് തുല്യമാക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഹൈസ്കൂൾ സൂത്രവാക്യങ്ങൾ ലഭിക്കും അതുപോലെ ഇവിടെ ഞാൻ എന്റെ h ൻറെ മൂല്യം 1 ന് തുല്യമാക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഹൈസ്കൂൾ സൂത്രവാക്യങ്ങൾ ലഭിക്കും അത് മാത്രമാണ് മാറിയത് അതിനാൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് ഏതു സൂത്രവാക്യം ആണോ അതാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് പുതിയ കുറച്ച് e യുടെയും h ൻറെയും ഘടകങ്ങൾ മാത്രമാണ് ഈ എൻജിനീയറിങ് പഠനത്തിൽ അധികമായി വന്നത് വിദ്യാർത്ഥി അതിനാൽ ഒരാൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെ 1 ഉം 2 ഉം അതിനാൽ 1 പ്രദേശം 1 ഉം 2 പ്രദേശം 2 ഉം ആണ് അതിനാൽ e h എന്നിവയുടെ സാന്നിധ്യത്തിൽ ഇതാണ് ആകെയുള്ള ഒരു വ്യത്യസ്തമായ കാര്യം ഇപ്പോൾ നമ്മൾ അതിൽ രസകരമായ എന്തെങ്കിലും ചെയ്യണം വിദ്യാർത്ഥി k1 എന്നത് എന്നാൽ ഇവിടെയുള്ള പതന തരംഗ വെക്റ്ററിന്റെ z ഘടകമാണ് Student So in the vectors we have the only the wave vectors in and വിദ്യാർത്ഥി അതിനാൽ വെക്ടറുകളിൽ നമുക്കുള്ളത് സമയം 1442 കാണുകമാത്രമാണ് തരംഗ വെക്ടറുകൾ ഉം ഉം അതെ z ഘടകങ്ങൾ അവ ദൃശ്യമാകുന്നതെന്തും തീർച്ചയായും മാധ്യമത്തിലെ സവിശേഷതകൾ പ്രദേശം 2 ലെ സവിശേഷതകൾ പ്രതിഫലന ഗുണകത്തെ സ്വാധീനിക്കും വിദ്യാർത്ഥി പക്ഷേ ഇല്ല അവിടെ പ്രതിഫലന ഗുണകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല k എന്നത് ഒരു തരംഗ വെക്ടറാണ് വിദ്യാർത്ഥിസർ ശരി ഉദാഹരണത്തിന് ഈ മാധ്യമത്തിലൂടെ ഒരു സമതല തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രെച്ച്ഡ് കോർഡിനേറ്റുകൾ അല്ല അവിടെയുള്ള ഒരു സാധാരണ മാധ്യമം എടുക്കുകയാണെങ്കിൽ അത് ആയിരിക്കും പതിക്കുന്നത് ആയാലും പ്രതിഫലിക്കുന്നത് ആയാലും ഏതൊരു സഞ്ചരിക്കുന്ന തരംഗവും ഇത് അനുസരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം അതിനാൽ ഇതാണ് ആ k വെക്റ്റർ ഏത് തരംഗവും അനുസരിക്കേണ്ട തരംഗ വെക്റ്റർ പ്രതിഫലിച്ച തരംഗത്തിന് ഒരു നെഗറ്റീവ് ഘടകം ഉണ്ടായിരിക്കും കാരണം പതന തരംഗത്തിൻറെ ഭാഗമായതിനാൽ ഇത് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഞാൻ ഒരു 2D അവലോകനം എടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ z അക്ഷമാണ് പതന തരംഗം ഇവിടെയും പ്രതിഫലിക്കുന്ന തരംഗം ഈ ദിശയിലേക്കും പോകുന്നു ഈ രണ്ട് തരംഗ വെക്റ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് z ഘടകം വാസ്തവത്തിൽ x ഘടകം അത് മാറുന്നില്ല അതാണ് നിങ്ങളുടെ സ്നെല്ലിന്റെ നിയമം പ്രതിഫലനകോണിന് തുല്യമായ പതന കോൺ അത് എങ്ങനെ വരും കൂടാതെ എന്നിങ്ങനെയാണ് തരംഗം ചുറ്റും തിരിയുന്നത് അതെ ഇത് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പൊതുവായാണ് കണ്ടെത്തുന്നത് നമ്മൾ കാന്തികമോ അല്ലാത്തതോ ആയി പരിമിതപ്പെടുന്നില്ല വിദ്യാർത്ഥി അതിനാൽ ഇതാണ് കാന്തം ഇത് നമ്മുടേതാണ് എന്ന് നമുക്ക് കാണാനാകും ഞാനിത് പൊതുവായി എടുത്താൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ സ്ട്രെച്ച് കോർഡിനേറ്റുകൾ എടുത്ത് മാക്സ്വെല്ലിന്റെ സമവാക്യം ചെയ്യും ഇത് ഇപ്പോൾ പ്രദേശം 2 നമ്മുടെ കൈകളിലാണ്